ഏവർക്കും സ്വാഗതം ഊർജ്ജ സംരക്ഷണവും പാഴാക്കപ്പെടുന്ന താപത്തിൻ്റെ വീണ്ടെടുക്കലും അഥവാ എനർജി കൺസർവഷൻ ആൻഡ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്ന കോഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നാം കടക്കുകയാണ് കഴിഞ്ഞ ഏതാനും അദ്ധ്യായങ്ങളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റീം പവർ പ്ലാൻ്റുകളേയും സ്റ്റീം പവർ സൈക്കിളുകളേയും കുറിച്ചായിരുന്നു വ്യത്യസ്ത ഉദാഹരണങ്ങളുടെ സഹായത്തോടെ അടിസ്ഥാനപരമായ ഒരു സ്റ്റീം പവർ സൈക്കിളിൻ്റെ വകഭേദങ്ങളെ നാം കാണുകയുണ്ടായി ഇപ്പോൾ ഇന്ധനത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ ഉപയോഗപ്രദമായ പ്രവൃത്തി ആയി മാറ്റുന്നതിനുള്ള മുഖ്യമായ മാർഗ്ഗങ്ങളിൽ ഒന്നാണ് സ്റ്റീം പവർ പ്ലാൻ്റ് ഉപയോഗപ്രദമായ പ്രവൃത്തി എന്നതുകൊണ്ട് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് വൈദ്യുതിയെ തന്നെയാണ് ആധുനിക സമൂഹം വലിയ ഒരു അളവു വരെ സ്റ്റീം പവർ പ്ലാൻ്റിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തെ ആശ്രയിക്കുന്നു അതായത് ആവശ്യമായ ഊർജ്ജത്തിൻ്റെ വളരെ വലിയ ഒരു പങ്ക് നൽകുന്നത് സ്റ്റീം പവർ പ്ലാൻ്റുകൾ ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പവർ സൈക്കിൾ ആണ് ഗ്യാസ് ടർബൈൻ പവർ സൈക്കിൾ ഇപ്പോൾ ഗ്യാസ് ടർബൈൻ പവർ സൈക്കിൾ അഥവാ ഗ്യാസ് ടർബൈൻ സൈക്കിൾ എന്നതിനെ ഒരു പ്രത്യേക സ്ഥലം അടിസ്ഥാനമായ പ്ലാൻ്റിൽ വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നതിന് എന്ന നിലയിൽ മാത്രമല്ല ഉപയോഗപ്പെടുത്തുന്നത് നേരേ മറിച്ച് ഗതാഗതത്തിന് പ്രത്യേകിച്ച് വ്യോമഗതാഗതത്തിനും ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ഇവിടെ നമ്മുടെ താല്പര്യം എന്നത് സ്റ്റീം പവർ പ്ലാൻ്റുകളെ വൈദ്യുതിയുടെ ഉല്പാദനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിലാണ് മറിച്ച് വ്യോമയാനങ്ങളുടെ വൈദ്യുത നിലയങ്ങളായി ഉപയോഗിക്കുന്നതിനല്ല ഇവ രണ്ടും തമ്മിൽ അത്ര വലിയ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ കൂടി അതിനാൽ ഒരു സ്റ്റീം പവർ പ്ലാൻ്റ് എന്ന നിലയിൽ ഗ്യാസ് ടർബൈൻ അടിസ്ഥാനപരമായി ആധാരമാക്കുന്നത് കൽക്കരിയെ ആണ് എന്നാൽ മറ്റ് ഇന്ധനങ്ങളും ഉണ്ട് താപോർജ്ജത്തിൻ്റെ ഉറവിടമായി ആണവ ഇന്ധനം പോലും ഉപയോഗിക്കപ്പെടുന്നു ഗ്യാസ് ടർബൈനിൽ വിവിധ തരത്തിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കും വ്യോമഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമാണ് എന്നാൽ വൈദ്യുതിയുടെ ഉല്പാദനത്തിനു വേണ്ടി ഒരു സ്ഥലത്തെ അടിസ്ഥാനമാക്കി ഉള്ള ഗ്യാസ് പവർ പ്ലാൻ്റുകൾക്ക് വിവിധ തരത്തിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കും ഖര ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ അതിനെ കത്തിക്കുന്നതിലൂടെ ചൂടുള്ള വാതകത്തെ സൃഷ്ടിക്കുകയും ആ ചൂടു വാതകത്തെ ഗ്യാസ് ടർബൈനിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഗ്യാസ് കൽക്കരി ആണവ റിയാക്ടർ എന്നതിനും ഗ്യാസ് ടർബൈൻ പവർ പ്ലാൻ്റിലേക്ക് താപോർജ്ജത്തെ നൽകാൻ കഴിയും കൽക്കരിയുടെ വാതകവൽക്കരണം എന്നത് മറ്റൊരു സാധ്യത ആണ് അതിലൂടെ ഒരു ഗ്യാസ് ടർബൈൻ പവർ പ്ലാൻ്റ് എന്നത് ഏതൊരാൾക്കും സാധ്യമാകുന്നു അതിനാൽ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ട് കൂടാതെ ഒരു സ്റ്റീം പവർ പ്ലാൻ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്യാസ് ടർബൈൻ പവർ പ്ലാൻ്റുകൾ പൊതുവേ വലിപ്പം കുറഞ്ഞവയാണ് അതിനാൽ ഗ്യാസ് ടർബൈൻ പവർ പ്ലാൻ്റുകൾക്ക് മറ്റു ചില മെച്ചങ്ങളും ഉണ്ട് എന്നാൽ ഇവയ്ക്ക് ചില പരിമിതികളും ഉണ്ട് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതും അതു തന്നെയല്ലേ യൂടുബിൽ നിന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വളരെ കാര്യക്ഷമങ്ങളായ എംജിറ്റി 6200 എംജിറ്റി 60 എന്നിവ 6 മെഗാവാട്ട് ഔട്ട്പുട്ട് ഗ്ലാസ്സിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഇതൊരു ഇരട്ട ആകൃതിയിലുള്ള മാതൃക ആണ് ഇത് ഉപയോഗിക്കുന്നത് കംപ്രസ്സറുകളുടെ മെക്കാനിക്കൽ ഡ്രൈവിനു വേണ്ടിയാണ് ഉദാഹരണമായി ഒതുക്കമുള്ള കോർ എൻജിൻ പരമാവധി ഔട്ട്പുട്ടായി 6 9 മെഗാ വാട്ട് 6 9 MW നൽകുന്നു ഇത് 9522 കുതിര ശക്തിക്കു സമാനമാണ് കൂടാതെ ഇത് 100 കുതിര ശക്തി വീതം ഉല്ലാദിപ്പിക്കുന്ന 95 ഓട്ടോമൊബൈൽ എൻജിനുകൾ ഒരേസമയം പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് എംജിറ്റി 6200 എന്നതിന് അടിസ്ഥാനപരമായി രണ്ട് ഭാഗങ്ങൾ ഉണ്ട് ഉയർന്ന മർദ്ദത്തിലുള്ള ടർബൈനോടു കൂടിയ ഗ്യാസ് ജനറേറ്റർ ഇടത് ഭാഗത്ത് കാണാം കൂടാതെ വൈദ്യുതി ഉപയോഗിച്ച് അഥവാ താഴ്ന്ന മർദ്ദത്തിൽ പ്രവർത്തിക്കുന്ന ടർബൈൻ വലതു ഭാഗത്ത് ഉണ്ട് ഇത് അസ്ഥിരമായ വേഗതയിൽ ഗ്യാസ് ജനറേറ്ററിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് അതിന് നന്ദി പറയേണ്ടത് രണ്ടാമത്തെ ഷാഫ്റ്റിനോട് ആണ് ഒരു ബാഹ്യമായ ഡ്രൈവ് ആണ് ഗ്യാസ് ടർബൈനിൻ്റെ പ്രവർത്തനം ആരംഭിപ്പിക്കുന്നത് ഈ ഉദാഹരണത്തിൽ ഇത് ഒരു വൈദ്യുത യന്ത്രം ആണ് അത് ഉയർന്ന മർദ്ദത്തിലുള്ള ടർബൈനിൻ്റെ ഷാഫ്റ്റിനെ പ്രവർത്തിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻമേൽ മൌണ്ട് ചെയ്തിരിക്കുന്ന 11 ഘട്ടങ്ങളുള്ള ആക്സിയൽ കംപ്രസ്സറിനേയും പ്രവർത്തിപ്പിക്കുന്നു ഉന്നത മർദ്ദമുള്ള ടർബൈൻ പ്രവർത്തിപ്പിക്കുന്ന കംപ്രെസ്സർ ജ്വലനത്തിന് ആവശ്യമായ വായുവിനെ സ്വീകരിക്കുകയും ചുരുക്കുകയും ചെയ്യുന്ന സേവനം നൽകുന്നു ജ്വലനത്തിനായുള്ള ആറ് അറകൾക്കുള്ളിൽ വായു ഇന്ധന വാതകവുമായി കൂട്ടിക്കലർത്തപ്പെടുന്നു അപ്രകാരം ഉണ്ടാകുന്ന മിശ്രിതത്തെ ജ്വലനത്തിന് വിധേയമാക്കുന്നു പുറത്തേക്ക് വരുന്ന ചൂടുള്ള വാതകം വികസിക്കുമ്പോൾ ഉയർന്നതും താഴ്ന്നതുമായ മർദ്ദങ്ങൾ ഉള്ള ടർബൈനുകളെ ചലിപ്പിക്കുന്നു ഈ പ്രക്രിയയെ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാം ബ്ലേഡുകളുടെ കറക്കത്തിലുള്ള ചലനം മൂലം ആക്സിയൽ കംപ്രെസ്സർ വായുവിൽ തട്ടുന്നു അവ ടർബൈനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകിയയിൽ എയർ ഇൻടേക്ക് കേസിംഗിലൂടെ കടന്നുപോകുന്ന ഒരു ഒഴുക്ക് സൃഷ്ടിക്കപ്പെടുന്നു കൂടാതെ അപ്പോൾ അച്ചുതണ്ടിൽ ഉടനീളമുള്ള മർദ്ദം 15 ബാർ വർദ്ധിക്കുന്നു ഇത് അർത്ഥമാക്കുന്നത് ആറ് തീച്ചൂളകളിലേക്ക് വായു പതിനഞ്ചു മടങ്ങ് കൂടുതൽ ഓക്സിജനുമായി ഒഴുകുന്നു എന്നാണ് ഈ മുന്നേറ്റം മൂലം ജ്വലിക്കുന്നവയ്ക്ക് ഇന്ധന വാതകത്തെ ചുരുക്കിയ വായുവുമായി ഏകീകൃതമായ രീതിയിൽ മുൻകൂറായി കൂട്ടിക്കലർത്തുവാനും സാധിക്കും അതായത് അത് ചൂളയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ അതിനുശേഷം ഈ മിശ്രിതത്തിന് തീകൊടുക്കുകയും വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചൂടിനെ പുറത്തേക്ക് വിടുന്ന തരത്തിൽ കത്തിക്കുകയും ചെയ്യുന്നു ഇന്ധന വാതകവും വായുവും ചേർന്നുള്ള മിശ്രിതം ജ്വലനത്തിൻ്റെ ചൂട് കാരണം വികസിക്കുന്നതു മൂലം അതിൻ്റെ വ്യാപ്തം അനേക മടങ്ങായി വർദ്ധിക്കുന്നു അതിൻ്റെ ഫലമായി ഉയർന്ന മർദ്ദമുള്ള ടർബൈനിൽ രണ്ടു നിരയിലായി ക്രമീകരിച്ചിരിക്കുന്ന ബ്ലേഡുകളുടെ ഇടയിലൂടെ ഉയർന്ന വേഗതയിൽ ഇത് ഒഴുകുന്നു തുടർന്ന് താഴ്ന്നമർദ്ദത്തിലൂടെ അഥവാ പവേർഡ് ടർബൈൻ വഴി ഒഴുകുന്നതിലൂടെ രണ്ടു തണ്ടുകളേയും ചലിപ്പിക്കുന്നു പുറത്തേക്ക് വിടുന്ന വാതകങ്ങൾ ഒരു ഡിഫ്യൂസറിലൂടെ പുറത്തേക്കു കടക്കുന്ന ഭാഗത്തു കൂടി ഒഴുകുന്നു അത് അവയുടെ താപനിലയെ 460 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്താൻ കാരണമാകുന്നു ഈ ഉയർന്ന താപനിലയെ ഇപ്പോളും ഉപയോഗപ്പെടുത്തുവാൻ സാധ്യവും ആണ് ഉദാഹരണമായി നീരാവി ഉല്പാദിപ്പിക്കാനായി പവർ ടർബൈനിൻ്റെ ഷാഫ്റ്റിനെ ഗ്യാസ് ജനറേറ്ററിൽ നിന്ന് സ്വതന്ത്രമാക്കി 12600 ആർപിഎം എന്ന നാമമാത്രമായ വേഗതയുടെ 45 മുതൽ 105 വരെയുള്ള വേഗതാ പരിധിയിൽ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ പ്രവർത്തിപ്പിക്കേണ്ടതായ യന്ത്രത്തിൻ്റെ ആവശ്യകതകൾക്ക് ഏറ്റവും ഇണങ്ങുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തി എടുക്കുവാനും സാധിക്കും എന്നിരുന്നാലും അത്തരത്തിൽ അയവുള്ള ഒരു വേഗതാ പരിധി വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ അനിവാര്യമല്ല അതു കൊണ്ടു തന്നെയാണ് ഒരു വൈദ്യുത ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കുന്ന എം ജി റ്റി 6200 എന്ന ഒറ്റയൊരു ഷാഫ്റ്റ് മാത്രമുള്ള മാതൃകയുമായി എം എ എൻ മുന്നോട്ടു വന്നത് ഇതിനാൽ യൂറ്റ്യൂബിൽ നിന്നും എടുത്ത ഗ്യാസ് ടർബൈൻ പവർ പ്ലാൻ്റിൻ്റെ ചിലതരം ആനിമേഷനുമായി ഞാനിത് തുടങ്ങിക്കഴിഞ്ഞു ഇതിനെ സൂചന ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് നിങ്ങൾക്കായി കാട്ടിത്തന്നത് കൂടാതെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് സൈക്കിൾ ഡയഗ്രത്തേയും വിവിധ ഘടകഭാഗങ്ങളേയും നാം സന്തോഷപൂർവ്വം സ്വീകരിക്കും എന്നതാണ് അതിനാൽ അടിസ്ഥാനപരമായി ആയി ഒരു ഗ്യാസ് ടർബൈൻ പവർ പ്ലാൻ്റിൽ വായുവിനെ എടുക്കുന്നത് ചുറ്റുപാടുമുള്ള ഉള്ള അന്തരീക്ഷത്തിൽ നിന്നു തന്നെ ആണ് അതിനുശേഷം അതൊരു കംപ്രസ്സറിലേക്ക് പോകുന്നു അതായത് വായു ചുരുക്കപ്പെടുന്നു അതിനു ശേഷം ചുരുക്കപ്പെട്ട വായു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തീച്ചൂളയിലേക്ക് അയയ്ക്കപ്പെടുന്നു കൂടാതെ ഇന്ധനത്തെ ഇതിലേക്ക് കയറ്റി വിടുന്നു അതിനാൽ ഇന്ധനം എന്നത് ദ്രാവകരൂപത്തിലുള്ള ഉള്ള ഇന്ധനം ആയിരിക്കും ജ്വലനം നടക്കുന്നു ഉയർന്ന മർദ്ദം ഉണ്ടായിരുന്ന വാതകം ഇപ്പോൾ ഉയർന്ന താപനില കൂടി കൈവരിച്ച ശേഷം ടർബൈനിലേക്ക് പോകുന്നു അതായത് ടർബൈനിലൂടെ വികാസം പ്രാപിക്കുന്നത് ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലുമുള്ള വാതകം ആണ് അപ്പോൾ ടർബൈൻ പ്രവൃത്തിയെ ഉല്പാദിപ്പിക്കുന്നു ടർബൈൻ ഉല്പാദിപ്പിക്കുന്നത് കംപ്രസ്സറിനെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തിയെ മാത്രമല്ല മറിച്ച് ഇത് അധികത്തിലുള്ള പ്രവൃത്തിയെ അതായത് Wnet നെ കൂടി ഉല്പാദിപ്പിക്കുന്നു ഈ പ്രവൃത്തിയെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും അതായത് ഇതിൽ നിന്നും വൈദ്യുതി ഉല്പാദിപ്പിക്കുവാനോ നേരിട്ട് എന്തിനെയെങ്കിലും പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുവാനോ ഒക്കെ സാധിക്കും അല്പം മുമ്പ് നാം കണ്ട ആനിമേഷനിൽ അവർ പറഞ്ഞത് ടർബൈൻ കംപ്രസ്സറിനേയോ അതേപോലെയുള്ള മറ്റു സംവിധാനങ്ങളെയോ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും എന്നാണ് എന്നാൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിനു വേണ്ടിയും അതിനെ ഉപയോഗിക്കാം മാതമല്ല ജ്വലനത്തിലൂടെ ലഭിക്കുന്ന ചൂടുള്ള ഉല്പന്നം ടർബൈനിലൂടെ വികാസം പ്രാപിക്കുമ്പോൾ ഏതാനും അളവിലുള്ള ഊർജ്ജത്തെ ടർബൈനിലേക്ക് നൽകുന്നു എന്നാൽ അപ്പോളും ഇത് കുറച്ചു കൂടിയ താപനില നിലനിർത്തും അത് ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരും അതിനാൽ ഊർജ്ജത്തെ വീണ്ടെടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരു സ്രോതസ്സ് ആണിത് നിങ്ങൾ കണ്ട ആനിമേഷനിലും ഇതേപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ ഇത് ഒരു ഗ്യാസ് ടർബൈനിൽ ഉള്ള യഥാർത്ഥ സൈക്കിൾ ആണ് കൂടാതെ ജ്വലനത്തിൻ്റെ ഉല്പന്നം ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ ഈ സൈക്കിൾ ഒരു തുറന്ന സൈക്കിൾ ആണ് കാരണം പ്രവൃത്തി ചെയ്യുന്ന ദ്രാവകം വായുവിനെ കൂടി എടുക്കുകയും ജ്വലനത്തിനു ശേഷം അതിൻ്റെ രാസഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട് അതിനാൽ പ്രവർത്തിക്കുന്ന ദ്രാവകത്തിന് നീരാവിയിലേക്ക് ഊർജ്ജം പകരാൻ വേണ്ടി ജ്വലന പ്രക്രിയ ഉള്ളിടത്തോളം കാലം അത് ഒരു അടഞ്ഞ സൈക്കിളാക്കി മാറ്റാൻ കഴിയില്ല പക്ഷേ ആശയ രൂപീകരണത്തിനായി ഇത്തരത്തിലുള്ള ഒരു സൈക്കിളിനെ അടഞ്ഞ ഒരു സൈക്കിൾ ആയി നമുക്ക് സങ്കല്പിക്കാം ഇത്തരത്തിലുള്ള സൈക്കിളിനെ ആണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് അതിനാൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിനായി കംപ്രസ്സർ വായുവിനെ എടുക്കുന്നുവെന്നും അതിനെ ചുരുക്കുന്നുവെന്നും നാം അനുമാനിക്കും അതിനു ശേഷം ഇത് അതായത് വായു ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നുപോകുന്നു ഇവിടെ ജ്വലനം നടക്കുന്നില്ലെങ്കിലും അനുയോജ്യമായ ഒരു ഉറവിടത്തിൽ നിന്നുമുള്ള താപത്തെ നൽകി കൂടുതൽ ചൂടാക്കുന്നുണ്ട് ഉയർന്ന താപനിലയും ഉയർന്ന മർദ്ദവുമുള്ള വാതകം ഒരു ടർബൈനിലേക്ക് പോകുകയും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു ടർബൈൻ കംപ്രസ്സറിനെ പ്രവർത്തിപ്പിക്കുകയും അധിക അളവിലുള്ള പ്രവൃത്തിയെ അതായത് Wnet നെ മറ്റ് ഉപയോഗപ്രദമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്യുന്നു മറ്റ് ആവശ്യങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈദ്യുതിയുടെ ഉല്പാദനവും ആകാം താഴ്ന്ന താപനിലയും താഴ്ന്ന മർദ്ദവുമുള്ള വാതകത്തെ മറ്റൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടത്തി വിടുന്നു അവിടെ അതിൻ്റെ താപത്തെ നിരസിച്ചു കളയുന്നു അങ്ങനെ സൈക്കിളിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന താപനിലയിലേക്ക് അത് തിരികെ എത്തുന്നു അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ് പോയിൻ്റിലേക്ക് ആണ് ഇത് എത്തിച്ചേരുന്നത് അവിടെ നിന്നും ഇത് കംപ്രസ്സറിലേക്ക് പോകുന്നു അതിനാൽ ഇതാണ് ഒരു അടിസ്ഥാനപരമായ ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഈ സൈക്കിളിനെ ബ്രേയ്ട്ടൺ സൈക്കിൾ അഥവാ ജൂൾ സൈക്കിൾ എന്നു വിളിക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞതു പോലെ ഒരു സ്റ്റാൻഡേർഡ് സൈക്കിളിനെ കുറിച്ച് നാം അനുമാനിക്കുന്നത് എന്തെന്നാൽ വാതകത്തെ ചൂടാക്കാനായി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിൽ ചൂടിനെ പകർന്നു നൽകുന്നു എന്നാൽ ടർബൈനിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ വാതകത്തിൽ നിന്നും ചൂടിനെ പുറന്തള്ളുന്നു അടുത്തതായി നമുക്ക് സൈക്കിളിൻ്റെ ഡയഗ്രത്തെ കുറിച്ച് ചിന്തിക്കാം സൈക്കിൾ ഡയഗ്രം കാഴ്ചയിൽ ഏതാണ്ട് ഇതുപോലെയാണ് ഞാൻ ഈ സൈക്കിൾ ഡയഗ്രത്തെ കാണിച്ചിരിക്കുന്നത് അത് രണ്ട് വ്യത്യസ്ത തെർമോഡൈനാമിക് തലങ്ങൾ ആയിട്ടാണ് ഒന്നു മുതൽ രണ്ടു വരെ ഉള്ള പി വി തലത്തിൽ ഇവിടെ മർദ്ദത്തിൽ ഒരു ഉയർച്ച ഉണ്ട് അടിസ്ഥാനപരമായി ഇത് പ്രതിനിധാനം ചെയ്യുന്നത് കംപ്രസ്സറിനുള്ളിലെ പ്രക്രിയയെ ആണ് അതിനുശേഷം രണ്ടു മുതൽ മൂന്നു വരെ ഉള്ള ഭാഗത്ത് ഇത് മാറ്റമില്ലാത്ത മർദ്ദത്തിൽ താപത്തെ വർദ്ധിപ്പിക്കുന്നു അതിനുശേഷം ഒരു വികാസം നടത്തുന്നു അതായത് 3 മുതൽ 4 വരെയുള്ള ഭാഗത്ത് ഒരു മാതൃകാപരമായ സൈക്കിളിനു വേണ്ടിയുള്ള ഉള്ള ചുരുക്കലും വികാസവും ഇവ രണ്ടും നടക്കുന്നു ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ റിവേഴ്സ്സിബിൾ അഡിയബാറ്റിക് പ്രക്രിയ ആയിട്ടാണ് ഇനി നാലു മുതൽ ഒന്നു വരെ ഉള്ള ഭാഗത്ത് ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിൽ താപത്തെ നിരസിക്കുന്നു അതായത് അത് ടർബൈനിൽ നിന്നും പുറംതള്ളുന്ന വാതകത്തിൽ നിന്നും താപത്തെ നിരസിക്കുന്നു അതിനു ശേഷം വീണ്ടും അത് ഒന്നാമത്തെ പോയിൻ്റിലേക്ക് തിരികെയെത്തുന്നു സൈക്കിളിൻ്റെ പ്രവർത്തനം വീണ്ടും തുടരുന്നു ഈ പ്രക്രിയയുടെ റ്റി എസ് ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ സൈക്കിളിൻ്റെ സവിശേഷത എന്നത് വികസിപ്പിക്കുകയും ചുരുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഐസെൻട്രോപ്പിക് പ്രക്രിയകൾ ആണ് എന്നാൽ താപത്തെ വർദ്ധിപ്പിക്കുകയും താപത്തെ നിരസിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാറ്റമില്ലാത്ത മർദ്ദത്തിൽ നടക്കുന്ന പ്രക്രിയകൾ ആണ് അതിനാൽ ഇതു കൊണ്ട് എയർ സ്റ്റാൻഡേർഡ് ബ്രേയ്ട്ടൺ സൈക്കിളിൻ്റെ കാര്യക്ഷമത കണക്കാക്കുവാൻ നാം താല്പര്യപ്പെടുന്നു എങ്കിൽ അതായത് താപ കാര്യക്ഷമത എന്നത് താഴ്ന്ന താപനിലയിൽ നിരസിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സൈക്കിളിലേക്ക് നൽകപ്പെടുന്ന താപത്തിൻ്റെ അളവ് അതായത് QH കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഫലത്തെ അതായത് QLQH എന്നതിനെ ഒന്നിൽ നിന്നും കുറച്ചാൽ മതി ഈ രണ്ടു പ്രവർത്തനങ്ങളും മാറ്റമില്ലാത്ത മർദ്ദത്തിൽ നടക്കുന്ന പ്രക്രിയകൾ ആണ് അതിനാൽ Cp ∆T എന്നത് നിരസിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ നൽകും അതേപോലെ തന്നെ അധികമായി ചേർക്കപ്പെടുന്ന താപത്തിൻ്റെ അളവും നമുക്ക് ലഭിക്കും അപ്പോൾ ചിലതരം കൌശലപ്പണികളിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം അഥവാ എക്സ്പ്രഷൻ ലഭിക്കും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തെന്നാൽ ഈ സൈക്കിളിൻ്റെ ഉള്ളിലെ മർദ്ദത്തിൻ്റെ നിരക്കുകൾ ആണ് നമുക്ക് മുൻപുള്ളതിലേക്ക് തിരികെ പോകാം അതായത് ഇവിടെ കംപ്രസ്സറിൽ വായുവിൻ്റെ മർദ്ദത്തെ പി1 ൽ നിന്നും പി2 ലേക്ക് ഉയർത്തുന്നു അതിനുശേഷം മാറ്റമില്ലാത്ത ഒരു പ്രക്രിയ അതായത് മർദ്ദത്തിൽ മാറ്റമില്ലാത്ത ഒരു പ്രക്രിയ ഉണ്ട് അതിനാൽ പി2 സമം പി3 P2P3 ആണ് അതിനുശേഷം ടർബൈനിൻ്റെ ഉള്ളിൽ മർദ്ദത്തെ പി3 യിൽ നിന്നും പി4 യിലേക്ക് ഉയർത്തുന്നു അതിനാൽ തീർച്ചയായും പി2 സമം പി3 p2p3 എന്നും കൂടാതെ പി4 സമം പി1 P4P1 എന്നും നമുക്ക് ലഭിക്കും അതിനാൽ ഈ വസ്തുത ഉപയോഗപ്പെടുത്തി നമുക്ക് P3P4 P2P1 എന്ന് എഴുതുവാൻ സാധിക്കും അപ്പോൾ ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിലെ വാതകം ഒരു മാതൃകാപരമായ വാതകമായി പെരുമാറും എന്നാണ് നാം കരുതുന്നത് അതിനാൽ മർദ്ദത്തിനും താപനിലയ്ക്കും ഇടയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബന്ധം അഥവാ റിലേഷൻഷിപ്പ് ലഭിച്ചു കഴിഞ്ഞു അതിനാൽ വിവിധ താപനിലകൾക്കു വേണ്ടി ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ നമുക്കു സാധിക്കും തെർമ്മോഡൈനാമിക്സിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഇതേ രീതി പിന്തുടർന്നാൽ മർദ്ദത്തിൻ്റെ നിരക്കിനേയും കെ എന്ന കോൺസ്റ്റൻ്റിനേയും അടിസ്ഥാനമാക്കി താപ കാര്യക്ഷമതയെ കണക്കാക്കാനും നമുക്ക് സാധിക്കും അതിനാൽ മർദ്ദത്തിൻ്റെ നിരക്കിനെ കുറിച്ച് ഞാൻ പറയട്ടെ എന്താണ് മർദ്ദത്തിൻ്റെ നിരക്ക് മർദ്ദം എന്നതിനെ പി1 ൽ നിന്നും പി2 ലേക്ക് ഉയർത്തുന്നു അതിനാൽ P2P1 എന്നതിനെ സൈക്കിളിൻ്റെ മർദ്ദത്തിൻ്റെ നിരക്ക് എന്നു വിളിക്കുന്നു അതിനാൽ മർദ്ദത്തിൻ്റെ നിരക്കിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇത് ലഭിക്കുന്നു ഇനി ഇവിടെ മറ്റൊരു പദം കൂടി ഉണ്ട് അതാണ് കെ അടിസ്ഥാനപരമായി കെ എന്നത് CpCv ആണ് മാതൃകാപരമായ ഒരു വാതകത്തിൻ്റെ കാര്യത്തിൽ നമുക്കിത് അറിയുവാൻ കഴിയും അതിനാൽ എന്താണ് ഇതിൻ്റെ മൂല്യം ഇതൊരു ഡയറ്റോമിക് വാതകം ആണെങ്കിൽ കെ യുടെ മൂല്യം 1 4 ആണ് അതിനാൽ ഇതുപയോഗിച്ച് നമുക്ക് സൈക്കിളിൻ്റെ കാര്യക്ഷമത ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സൈക്കിളിൻ്റെ കാര്യക്ഷമത എന്നത് മർദ്ദത്തിൻ്റെ നിരക്കിനെ മാത്രം ആശ്രയിച്ചുള്ളതാണ് എന്ന് അതിനാൽ ഇതിനെ മാറ്റി പകരമായി നമുക്ക് മർദ്ദത്തിൻ്റെ നിരക്കിനെ രേഖപ്പെടുത്താം തെർമ്മോ ഡൈനാമിക്സിൻ്റെ മിക്കവാറും പുസ്തകങ്ങളിൽ ഇതിനെ ആർപി എന്നാണ് രേഖപ്പെടുത്തുന്നത് അതിനാൽ താപ കാര്യക്ഷമത എന്നത് മർദ്ദത്തിൻ്റെ നിരക്കിനേയും കെ എന്ന കോൺസ്റ്റൻ്റിനേയും ആശ്രയിച്ചിരിക്കുന്നു കെ എന്നത് CpCv ആണ് ഇതോടു കൂടി നാം അടുത്ത ചിത്രത്തിലേക്ക് എത്തി ചേർന്നിരിക്കുന്നു തുടക്കത്തിൽ നാം പറഞ്ഞതുപോലെ നമുക്ക് ഏതാനും സ്ലൈഡുകൾ പിന്നിലേക്ക് പോകാം അതിനാൽ ഇവിടെ ഇതാണ് മാതൃകാപരമായ സൈക്കിൾ എങ്കിലും യഥാർത്ഥ സൈക്കിൾ എന്നത് ഈ ഓപ്പൺ സൈക്കിളിനെ പോലെയാണ് അതായത് യഥാർത്ഥത്തിലുള്ള സൈക്കിൾ ഓപ്പൺ സൈക്കിൾ ആണ് എന്ന് കൂടാതെ മിക്കവാറും ഗ്യാസ് ടർബൈനുകൾ പ്രവർത്തിക്കുന്നത് ഓപ്പൺ സൈക്കിളിൽ ആണ് ക്ലോസ്ഡ് സൈക്കിളുകൾക്ക് ചില ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും അവ എണ്ണമെടുത്താൽ അധികമൊന്നും ഇല്ല അതിനാൽ ഈ ഓപ്പൺ സൈക്കിളിൽ നമുക്ക് എന്താണ് കണ്ടെത്താൻ കഴിയുന്നത് ടർബൈനിൽ നിന്നും പുറത്തു വിടുന്ന വാതകം ആവശ്യത്തിനുള്ള അളവിൽ താപോർജ്ജത്ത വഹിച്ചു കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ഇത് പോകുന്നത് ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിലേക്ക് ആണ് കൂടാതെ ഈ പ്രവർത്തനം കാര്യമായ ഒരു ഊർജ്ജ നഷ്ടവും കൂടിയാണ് അതിനാൽ ഒരിക്കൽ നാമിതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഊർജ്ജത്തെ വീണ്ടെടുക്കുവാനുള്ള ഏതെങ്കിലും ഒരു മാർഗ്ഗവും അവിടെ ഉണ്ടാകും വികസിത രൂപത്തെ പരിഷ്ക്കരിക്കുന്നതിലൂടെ അതു തന്നെയാണ് ചെയ്യപ്പെടുന്നുതും നമുക്ക് നാം തൊട്ടുമുമ്പ് കണ്ടു കഴിഞ്ഞ ഡയഗ്രത്തിലേക്ക് തിരികെ പോകാം ഇപ്പോൾ നമുക്ക് ഇതിനെ വിശദീകരിക്കുവാൻ സാധിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ഇത് ഇതുപോലെ ആണ് പുറത്തേക്കു വരുന്ന വാതകത്തെ അകത്തേക്ക് വരുന്ന വായുവിനെ ചൂടാക്കാനായി ഉപയോഗിക്കാം അതായത് അത് തീച്ചൂളയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനാൽ അടിസ്ഥാനപരമായി ഇവിടെ ഞാൻ മൂന്ന് ഉപകരണങ്ങളെ കാണിച്ചിട്ടുണ്ട് അവയെ ഉപയോഗിക്കുന്നത് എയർ സ്റ്റാൻഡേർഡ് ബ്രായ്ട്ടൺ സൈക്കിളിനെ പരിഷ്ക്കരിക്കുന്നതിനു വേണ്ടിയുള്ള മറ്റു മൂന്ന് ഉപായങ്ങൾ എന്ന രീതിയിലാണ് അതിനാൽ നമുക്ക് കൂടുതൽ നല്ല താപ പരിവർത്തനം ലഭിക്കുന്നു ഊർജ്ജത്തിൻ്റെ മെച്ചപ്പെട്ട ഉപയോഗവും സാധ്യമാക്കുന്നു കൂടാതെ ഈ സൈക്കിളിൽ നിന്നും നമുക്ക് കൂടുതൽ ഉയർന്ന അളവിലുള്ള ഉല്പാദനവും സാധ്യമാകുന്നു അതിനാൽ തുടക്കത്തിൽ ഇതേ പോലെ ആണ് ഞാനിത് വിശദീകരിച്ചു കഴിഞ്ഞതാണ് എന്നാൽ അതിനു മുമ്പേ തന്നെ നാം ഉപയോഗിച്ചു കഴിഞ്ഞ മറ്റൊരു തത്ത്വം കൂടിയുണ്ട് അത് ഇതേ പോലെ ആണ് നമുക്ക് ചുരുക്കേണ്ടതായ വായു അതിനെ എത്രയും കൂടുതൽ ചുരുക്കുന്നുവോ അത് അത്രയും കൂടുതൽ മെച്ചപ്പെട്ടതാകും എന്തുകൊണ്ടെന്നാൽ അപ്പോൾ നമുക്ക് കൂടുതൽ ഉയർന്ന അളവിൽ കൂടിയ ഊർജ്ജത്തെ ലഭിക്കുന്നു കാരണം സൈക്കിളിൻ്റെ താപ കാര്യക്ഷമത എന്നത് മർദ്ദത്തിൻ്റെ നിരക്കിനെ ആശ്രയിച്ചാണ് എന്നു നാം കണ്ടു കഴിഞ്ഞു മർദ്ദത്തിൻ്റെ നിരക്ക് എത്രയും കൂടുതലാണോ അത്രയും ഉയർന്നതായിരിക്കും സൈക്കിളിൻ്റെ കാര്യക്ഷമതയും എന്നാൽ മർദ്ദത്തിൻ്റെ നിരക്ക് കൂടുന്നതിന് അനുസരിച്ച് കംപ്രസ്സറിന് കൂടുതൽ അളവിലുള്ള പ്രവൃത്തി ആവശ്യമായി വരുന്നു കംപ്രസ്സറിൽ നാം ഒരു വാതകത്തെ ചുരുക്കുകയല്ലേ ചെയ്യുന്നത് വാതകത്തെ ചുരുക്കുന്ന ഈ പ്രവർത്തനത്തിന് പുറത്തു നിന്നുള്ള ഊർജ്ജം ആവശ്യമായി വരും എന്നാൽ കൂടുതൽ കൂടുതൽ ചുരുക്കുമ്പോൾ വാതകത്തെ വീണ്ടും ചുരുക്കുന്നത് കൂടുതൽ കൂടുതൽ ആയാസകരമാകും തുടർന്നുള്ള ചുരുക്കൽ പ്രവർത്തനം ബുദ്ധിമുട്ടുള്ളതാകുന്നത് എന്തുകൊണ്ടാണ് കാരണം നാം വാതകത്തെ ചുരുക്കുന്തോറും അതിൻ്റെ താപനിലയും വർദ്ധിക്കുന്നു അതായത് വാതകത്തിൻ്റെ താപനില ഉയരുമ്പോൾ ചൂടുള്ള വാതകത്തെ വീണ്ടും ചുരുക്കുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് അതു കൊണ്ടാണ് ചുരുക്കുന്ന പ്രവർത്തനം പുരോഗമിക്കുന്തോറും ഉയർന്ന ചുരുക്കൽ സാധ്യമാക്കാൻ അതായത് കൂടുതൽ ഉയർന്ന കംപ്രഷൻ നിരക്ക് ലഭിക്കുന്നതിനായി നമുക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുന്നത് അതിനാൽ എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് കംപ്രഷൻ എന്നത് ഒന്നിലേറെ ഘട്ടങ്ങളായി ചെയ്യാൻ സാധിക്കും ഇവിടെ ഞാൻ രണ്ടു ഘട്ടങ്ങളെ കാണിച്ചിട്ടുണ്ട് തുടക്കത്തിൽ വാതകം ഒരു നിശ്ചിത അളവ് മർദ്ദത്തിൽ ചുരുക്കപ്പെടുന്നു അപ്പോൾ അതിൻ്റെ താപനിലയും ഉയരുന്നു അപ്പോൾ നാം ഈ വാതകത്തെ തണുപ്പിക്കുക ആണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ കുറഞ്ഞ താപനിലയിലുള്ള വാതകത്തെയാണ് ചുരുക്കുന്നതെങ്കിൽ അപ്പോൾ നാം ചിലവഴിക്കേണ്ടി വരുന്നത് അതേ അളവിലുള്ള പ്രവൃത്തി ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചു കൂടി ഉയർന്ന മർദ്ദ നിരക്ക് ഉണ്ടാകും അല്ലെങ്കിൽ കംപ്രസ്സറിന് ചെയ്യേണ്ടതായി വരുന്ന പ്രവൃത്തിയുടെ അളവ് കുറയുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാം മുമ്പ് കണ്ട റാങ്കിൻ സൈക്കിളിനെ അഭിനന്ദിക്കേണ്ടത് വളരെ പ്രധാനമാണ് റാങ്കിൻ സൈക്കിളിൽ ദ്രാവകത്തിൻ്റെ മർദ്ദം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനായി അവിടെ നമുക്ക് ഒരു പമ്പ് ഉണ്ട് ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ കാര്യത്തിൽ ഇവിടെയും മർദ്ദം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനായി ഇവിടെ നമുക്ക് ഉള്ളത് ഒരു കംപ്രസ്സർ ആണ് റാങ്കിൻ സൈക്കിളിൽ നാം ഒരു ദ്രാവകത്തെ കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചെറിയ അളവിലുള്ള ജോലി മാത്രമേ അതിനായി ആവശ്യമുള്ളൂ ചിലപ്പോൾ പമ്പിൻ്റെ പ്രവർത്തനം പോലും അവഗണിക്കപ്പെടാവുന്ന അത്രയേ ആവശ്യം ഉണ്ടാകുള്ളൂ എന്നാൽ ബ്രായ്ട്ടൺ സൈക്കിളിൻ്റെ കാര്യത്തിൽ ഒരു വാതകത്തെ ആണ് കംപ്രസ് ചെയേണ്ടത് ഈ വാതകം എന്നത് കംപ്രസ് ചെയ്യാവുന്ന ദ്രാവകത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കും ഇവിടെ കംപ്രസ് ചെയ്യാൻ നമുക്ക് വളരെ കൂടിയ അളവിലുള്ള പ്രവൃത്തി ആവശ്യമായി വരും കംപ്രസ്സറുകൾ നന്നായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവ അല്ലെങ്കിൽ ഇൻ്റർകൂളർ മുതലായവയുടെ സഹായത്തോടെ കംപ്രഷൻ പ്രവർത്തനങ്ങളെ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ടർബൈൻ സൈക്കിൾ മറ്റുള്ളവയോട് കിട പിടിക്കുവാൻ തക്ക മത്സര സ്വഭാവമുള്ളത് ആയിരിക്കുകയില്ല മാത്രമല്ല അത് കൂടുതൽ ഊർജ്ജത്തെ ഉല്പാദിപ്പിക്കുകയുമില്ല ടർബൈനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജം കംപ്രഷൻ കാരണം ഇത് കൂടുതൽ താപത്തെ ഉപയോഗിക്കും അതിനാൽ ഇൻ്റർകൂളിംഗ് എന്നത് സുപ്രധാനമാണ് അപ്പോൾ ഇൻ്റർകൂളിംഗ് എന്നാൽ എന്താണ് നമ്മുടെ വാതകം കംപ്രസ് ചെയ്യപ്പെടുന്നത് വിവിധ ഘട്ടങ്ങളിലായി ആണ് അതിനിടയിൽ തണുപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ട് വികസിപ്പിക്കുന്ന പ്രവർത്തനത്തിൻ്റെ കാര്യത്തലും സമാനമായ തത്വം ബാധകമാണ് എന്താണ് നാം ചെയ്യുക അടിസ്ഥാനപരമായ ബ്രായ്ട്ടൺ സൈക്കിളിൽ നാം തീച്ചൂളയിൽ അല്ലെങ്കിൽ നിഷ്ക്രിയമായ സന്ദർഭത്തിൽ ചില ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വാതകത്തെ ചൂടാക്കുകയും അതിനുശേഷം അത് ഒരു ടർബൈനിൻ്റെ ഉള്ളിൽ വികാസം പ്രാപിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അടിസ്ഥാനപരമായ സൈക്കിളിൽ ഒരു ടർബൈനിൻ്റെ ഉള്ളിൽ വികാസം പ്രാപിക്കാൻ ഇതിനെ നാം അനുവദിക്കുമ്പോൾ ഇത്തരത്തിൽ വികസിക്കുന്ന ഈ പ്രവർത്തനം നടത്തപ്പെടുന്നത് ഒരേയൊരു ടർബൈനിൻ്റെ ഉള്ളിൽ ഒരേയൊരു ഘട്ടമായി ആയിരിക്കും എന്നാൽ നമുക്ക് ഈ പ്രവർത്തനത്തെ ഒന്നിലേറെ ഘട്ടങ്ങളിലായും ചെയ്യാൻ സാധിക്കും ഈ ഘട്ടങ്ങൾക്കിടയിൽ നാം അതിനെ ചൂടാക്കുന്ന പ്രവർത്തനവും നടത്തും അതിലൂടെ കൂടുതൽ പ്രവൃത്തിയെ വേർതിരിച്ച് എടുക്കാനാകും കാര്യക്ഷമത അതായത് പ്ലാൻ്റിൻ്റെ കാര്യക്ഷമത വർദ്ധിച്ചു കൊണ്ടേയിരിക്കും കൂടാതെ ആത്യന്തികമായി അതിനു ശേഷം എന്താണ് നാം ചെയ്യുന്നത് ടർബൈനിൻ്റെ അവസാന ഘട്ടത്തിൽ പുറത്തേക്കു വിടുന്ന വാതകം പുറത്തേക്കു വരുന്നത് താപോർജ്ജത്തെ വഹിച്ചു കൊണ്ടായിരിക്കും നാം ആ താപോർജ്ജത്തെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ മറ്റൊരു വാതകത്തെ ചൂടാക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നു അതാണ് കംപ്രസ്സറിൻ്റെ അവസാന ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് അതിനാൽ ആ ചൂടുള്ള വാതകം തീച്ചൂളയിലേക്ക് പോകുന്നു അങ്ങനെ ജ്വലനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു സമാനമായ അളവിലുള്ള ഊർജ്ജം ലഭ്യമാക്കുന്നതിന് തീച്ചൂളയിലേക്ക് കുറഞ്ഞ അളവിലുള്ള ഇന്ധനം നൽകിയാൽ മതിയാകും കാരണം ഊർജ്ജത്തിൻ്റെ ഒരു ഭാഗം ലഭിക്കുന്നത് പുറത്തേക്ക് നൽകപ്പെടുന്ന ചൂടുള്ള വാതകത്തെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ആണല്ലോ ഇൻ്റർകൂളിംഗ് റീഹീറ്ററുകൾ പുനരുൽപ്പാദനം എന്നിവയെ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യം ഇതാണ് അപൂർവ്വമായി മാത്രം ഒരു ഗ്യാസ് ടർബൈൻ പവർ പ്ലാൻ്റിനെ ഒരു ഒറ്റപ്പെട്ട ഉപകരണമായി ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ അപൂർവ്വമായി മാത്രം നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞ ബ്രായ്ട്ടൺ സൈക്കിളിനെ ഉപയോഗിക്കും ചില തരം പരിഷ്ക്കാരങ്ങളോടു കൂടിയ സൈക്കിളുകൾ നമുക്ക് ഉണ്ടാകും അടിസ്ഥാനപരമായി ഈ മൂന്ന് പരിഷ്ക്കാരങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത് ഒന്നാമതായി കംപ്രഷൻ്റെ വിവിധ ഘട്ടങ്ങൾക്കിടയിലുള്ള ഇൻ്റർ കൂളിംഗ് ആണ് രണ്ടാമതായി അതിനു ശേഷമുള്ള പരിഷ്ക്കാരങ്ങൾ എന്നത് ചൂടാക്കുന്ന പ്രവർത്തനത്തിലൂടെ വരുത്തുന്നവയാണ് വീണ്ടും ചൂടാക്കുന്നു എന്ന അർത്ഥത്തിൽ റീഹീറ്റിംഗ് എന്നും ഈ പ്രവർത്തനത്തെ വിളിക്കുന്നു അതായത് റീഹീറ്റിംഗ് എന്നത് സംഭവിക്കുന്നത് വാതകത്തിനെ വികസിപ്പിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ആദ്യ ഘട്ടത്തിനു ശേഷമോ തുടർന്നുള്ള ഘട്ടങ്ങൾക്ക് ശേഷമോ ആയിരിക്കും അങ്ങനെയാണ് റീഹീറ്റിംഗ് എന്ന പ്രവർത്തനം മൂന്നാമതായി ചിലതരം താപ കൈമാറ്റങ്ങളാണ് അതായത് ഒരു റെക്യൂപ്പറേറ്ററിലൂടെയോ അല്ലെങ്കിൽ ചില തരം റീജനറേറ്ററുകളിലൂടെയോ നടക്കുന്ന താപ വിനിമയങ്ങൾ എന്തു തന്നെ ആയാലും നമുക്കിത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും കൂടാതെ കംപ്രസ്സറിൻ്റെ അവസാന ഘട്ടത്തിൽ പുറത്തേക്ക് പോകുന്ന വാതകത്തെ അത് തീച്ചൂളയിലേക്ക് പോകുന്നതിന് മുമ്പ് ചൂടാക്കാനും സാധിക്കുന്നു ഇതാണ് നമുക്കു ലഭിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ സൈക്കിൾ ഡയഗ്രം ഇതേപ്പറ്റി വിശദീകരിക്കുവാനായി ഞാൻ ഏതാനും സമയം എടുക്കുകയാണ് നമുക്കു ലഭിച്ച അടിസ്ഥാന സൈക്കിൾ ഡയഗ്രം ഇതേ പോലെ ആണ് നമുക്ക് ഈ പി വി ഡയഗ്രത്തെ പരിഗണിക്കാം അതിനാൽ ഇതാണ് അടിസ്ഥാനപരമായ ബ്രേയ്ട്ടൺ സൈക്കിൾ എയർ സ്റ്റാൻഡേർഡ് ബ്രേയ്ട്ടൺ സൈക്കിൾ 1 2 3 4 Air Standard Brayton cycle 1 2 3 4 എന്നിവ നമുക്കു ലഭിച്ചു കഴിഞ്ഞു കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് നിങ്ങളുടെ Qin കൂടാതെ ഇതാണ് നിങ്ങളുടെ നിരസിക്കപ്പെടുന്ന താപം അഥവാ Q̇out ഇപ്പോൾ ഈ പരിഷ്ക്കാരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതേ പോലെ ആണ് ഇതാണ് ആദ്യ ഘട്ടത്തിലുള്ള ചുരുക്കൽ പ്രവർത്തനം തുടർന്ന് അവിടെ ചില തരത്തിലുള്ള ഇൻ്റർകൂളിംഗ് ഉണ്ടാകും അതിനു ശേഷം ചുരുക്കൽ പ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടം ആണ് അപ്പോൾ ഇതാണ് മാറ്റമില്ലാത്ത മർദ്ദത്തിൽ നടക്കുന്ന താപസങ്കലനം ഇതാണ് വികാസത്തിൻ്റെ ആദ്യത്തെ ഘട്ടം തുടർന്ന് വീണ്ടും ചൂടാക്കുന്ന പ്രവർത്തനം അതിനു ശേഷം വികാസത്തിൻ്റെ അടുത്ത ഘട്ടവും ഇപ്പോൾ നിരസിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിൽ ഒരു ഭാഗം പുറത്തേക്കുവരുന്ന വായുവിനെ അതായത് കംപ്രഷൻ്റെ അവസാന ഘട്ടത്തിൽ നിന്ന് പുറത്തുവരുന്ന വായുവിനെ ചൂടാക്കാനായി ഇപ്പോൾ എടുക്കപ്പെടും അപ്പോൾ മാത്രമാണ് ഇത്രയും അളവ് താപം തീച്ചൂളയിലേക്ക് ചേർക്കപ്പെടുന്നത് അഥവാ പുറത്തുള്ള ഒരു ഉറവിടത്തിൽ നിന്ന് ചേർക്കപ്പെടുന്നത് ഇത് കേവലം മുമ്പ് സൂചിപ്പിച്ച പി വി യ്ക്ക് സമാനമാണ് അപ്പോൾ നാം കുറഞ്ഞ അളവിലുള്ള താപത്തെ നിരസിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഇത് തീർച്ചയായും സൈക്കിളിൻ്റെ താപ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായ സൈക്കിളിനെ കുറിച്ചും ബ്രായ്ട്ടൺ സൈക്കിളിൻ്റെ പരിഷ്ക്കരിച്ച രൂപങ്ങളെ കുറിച്ചും നാം ചർച്ച ചെയ്തു അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് താപ സംരക്ഷണ തത്ത്വത്തിനും നഷ്ടപ്പെട്ട താപത്തെ വീണ്ടെടുക്കലിൻ്റെ തത്ത്വങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള ആശയങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും അതിനാൽ ഇതോടു കൂടി ഞാൻ എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഗ്യാസ് ടർബൈൻ സൈക്കിളിനെ കുറിച്ചുള്ള നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗമായിരുന്നു